ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കമ്പ്യൂട്ടേഷണൽ ഇലക്ട്രോമാഗ്നെറ്റിക്സ് മേഖലയുടെ ഒരു അവലോകനം നൽകാൻ പോകുന്നു അതിന്റെ ചരിത്രം എന്താണ് ഈ ഫീൽഡ് എവിടെ നിന്നാണ് വരുന്നത് എത്ര പഴയത് എത്ര പുതിയത് ഈ ഫീൽഡ് പ്രയോഗിക്കുന്ന ചില സ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ച് അറിയേണ്ടതുണ്ട് ഇതൊരു വിശാലമായ രൂപരേഖയാണ് ഈ ഫീൽഡ് എവിടെ നിന്നാണ് വന്നത് എന്നതിന്റെ ഗണിതശാസ്ത്ര ചരിത്രത്തിൽ നിന്ന് ആരംഭിക്കും വൈദ്യുതകാന്തിക സമവാക്യങ്ങൾ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളാണെന്ന് Maxwells equations എല്ലാവർക്കും അറിയാം അതിനാൽ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട് വ്യത്യസ്ത രീതികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും അതിനാൽ എപ്പോഴാണ് ഒരാൾ ശരിയായ രീതി ഉപയോഗിക്കേണ്ടത് അതായത് വ്യത്യസ്ത രീതികൾ പ്രയോഗിക്കുന്ന ഈ വ്യത്യസ്ത തരം ഭൌതികശാസ്ത്ര വ്യവസ്ഥകൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തും പരിമിതമായ ഘടകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് പരിമിതമായ വ്യത്യാസ സമയ ഡൊമെയ്ൻപരിമിത ഘടകം എപ്പോൾ ഉപയോഗിക്കണം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അതിനാൽ അത് നമ്മൾ സംസാരിക്കുന്ന വളരെ ലളിതമായ ചില ആശയങ്ങളിൽ നിന്നാണ് വരുന്നത് തുടർന്ന് അവ എങ്ങനെ പരിഹരിക്കും അവസാനമായി നിങ്ങൾ ക്ലാസിലുള്ളത് ഇതുകൊണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് കണക്കുകൂട്ടൽ വൈദ്യുതകാന്തികശാസ്ത്രം ഉപയോഗപ്രദമാകുന്നത് ഈ കോഴ്സിന്റെ അവസാനം ഞാൻ നിങ്ങളോട് പറയുന്ന ചില ലളിതമായ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഈ പ്രദേശത്തെ പേപ്പറുകളെങ്കിലും വായിക്കാനോ ഈ മേഖലയിലെ ഒരു സോഫ്റ്റ്വെയർ നോക്കാനോ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനോ കഴിയണം വിദ്യാർത്ഥികൾ വാണിജ്യ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതായി നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും എന്നാൽ അവർ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷനുകൾക്ക് മുകളിലുള്ള ടിക്ക് ബോക്സ് എന്താണ് എന്താണ് അർത്ഥമാക്കുന്നത് ബൌധികമായി എന്താണ് സംഭവിക്കുന്നത് ഗണിതപരമായി എന്താണ് സംഭവിക്കുന്നത് എന്ന് അവർക്കറിയില്ല അത് വലിയ വ്യത്യാസമുണ്ടാക്കുന്നു നിങ്ങൾക്കറിയാമോ ഒരു സിമുലേഷൻ 1 ദിവസമോ 2 ദിവസമോ എടുത്തേക്കാം അത് പ്രവർത്തിക്കാൻ 3 ദിവസമെടുത്തേക്കാം നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷനുകൾ ശരിയായി തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങളുടെ സ്വന്തം വാണിജ്യ സോഫ്റ്റ്വെയറോ നിങ്ങളുടെ സ്വന്തം സോഫ്റ്റ്വെയറോ എഴുതാൻ കഴിയുമെങ്കിൽ ഈ മേഖലയിൽ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ധാരാളം സാധ്യതകളുണ്ടെന്ന് നിങ്ങൾ ചുരുങ്ങിയത് അറിഞ്ഞിരിക്കണം അതിനാൽ ഇത് സ്പെക്ട്രത്തിന്റെ മറ്റേ അറ്റമാണ് കമ്പ്യൂട്ടേഷണൽ വൈദ്യുതകാന്തിക മേഖലയുടെ ഗണിതശാസ്ത്ര ചരിത്രത്തിലേക്ക് വരുന്നു അതിനാൽ വളരെക്കാലമായി ഭൌതികശാസ്ത്ര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗണിതം ഉപയോഗിക്കുന്നുവെന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാൽ സമീപകാലത്തെ ആധുനിക ചരിത്രത്തിലെങ്കിലും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള കെപ്ലറിൽ നിന്നാണ് ആരംഭിക്കുന്നത് അദ്ദേഹം ഒരു തരം കാൽക്കുലസും ഉപയോഗിച്ചില്ല പക്ഷേ ഗ്രഹങ്ങൾ എങ്ങനെ നീങ്ങുന്നുവെന്ന് പ്രവചിക്കാൻ വളരെ പ്രാഥമികമായ ഗണിതമാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതിനാൽ ഗ്രഹങ്ങൾ ചലിക്കുന്നത് വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലല്ല മറിച്ച് ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥങ്ങളാണെന്ന് നമ്മളോട് പറഞ്ഞയാളാണ് അദ്ദേഹം നാമെല്ലാവരും ഈ കെപ്ലറുടെ നിയമം സ്കൂളിൽ പഠിച്ചു അതിനാൽ അത് പ്രീ കാൽക്കുലസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്കറിയാം ആളുകൾ കൂടുതൽ വിശദമായ നിരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി എല്ലാ നിരീക്ഷണങ്ങളും നിലവിലുള്ള സിദ്ധാന്തവുമായി പൊരുത്തപ്പെടുന്നില്ല അതിനാൽ അടുത്ത 100 വർഷങ്ങളിൽ ഏകദേശം 1600 അല്ലെങ്കിൽ 1700 കളിൽ അത് കാൽക്കുലസ് അവകാശത്തിന്റെ ജനനമായിരുന്നു അത് ലീബ്നിസും ന്യൂട്ടണും സംയുക്തമായാണ് കണ്ടെത്തിയത് അതായത് അത് ആദ്യകാല കാൽക്കുലസ് ആണ് കൂടുതലും മെക്കാനിക്സ് പ്രശ്നങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു അതിനാൽ വീണ്ടും ഗ്രഹങ്ങളുടെയും അത്തരം വസ്തുക്കളുടെയും ചലനമാണ് ഈ നിയമങ്ങളെല്ലാം രൂപപ്പെടുത്തുന്നതിലേക്ക് നയിച്ച പ്രധാന താൽപര്യം അവിടെയാണ് കാൽക്കുലസ് വരുന്നത് ഒരേസമയം ധാരാളം ജോലികൾ ഉണ്ടായിരുന്നു ധാരാളം ആളുകൾക്ക് താൽപ്പര്യമുണ്ടായിരുന്നു ദ്രാവകങ്ങൾ എങ്ങനെ ഒഴുകുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നെല്ലാം ഒരു നദിയിലോ പൈപ്പിലോ അല്ലെങ്കിൽ ദ്രാവക ഒഴുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമുക്ക് പറയാം അതിനാൽ അവർക്ക് ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുടെ സിദ്ധാന്തം ആവശ്യമായിരുന്നു ദ്രാവക ഒഴുക്കിനെ പറ്റിയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഡിഫറൻഷ്യൽ സമവാക്യങ്ങളുടെ സിദ്ധാന്തം ആദ്യം വന്നു ഈ സമവാക്യങ്ങളെ നാവിയർ സ്റ്റോക്സ് സമവാക്യങ്ങൾ എന്ന് വിളിക്കുന്നുവെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം ഇപ്പോൾ ഈ നാവിയർ സ്റ്റോക്സ് സമവാക്യത്തെ രസകരമാക്കാൻ കാരണം അവ രേഖീയമല്ലാത്തവയാണ് അവയ്ക്ക് വിശകലന പരിഹാരങ്ങൾ ഇല്ല എന്നതാണ് അതിനാൽ 1900 മുതൽ ആരംഭിക്കുന്ന ധാരാളം ജോലികൾക്ക് അത് കാരണമാകുമെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയും ഒരു രീതിക്ക് അടച്ച രീതിയിലുള്ള പരിഹാരം ഇല്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അതിന് വിശകലന പരിഹാരമില്ല അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ അത് സംഖ്യാപരമായി ശരിയാക്കണം അതായത് ഒരു ഡിഫറൻഷ്യൽ സമവാക്യം സംഖ്യാപരമായി പരിഹരിക്കുന്നതിനുള്ള ആദ്യ ശ്രമം വന്നത് ഈ ഫീൽഡിൽ ആണ് ആ ഫീൽഡ് കംപ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് അല്ലെങ്കിൽ CFD എന്ന് വിളിക്കപ്പെട്ടു അതാണ് ബഹിരാകാശ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠനത്തിലെ ധാരാളം വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത് അത്യാവശ്യം കണ്ടുപിടുത്തത്തിന്റെ മാതാവാണെന്നതിനാൽ പഴയത് പോലെയാണ് അതിനാൽ അവർക്ക് വിശകലന പരിഹാരമില്ല അവർക്ക് മറ്റ് മാർഗമില്ല പക്ഷേ നമ്മൾ ഇത് എങ്ങനെ സംഖ്യാപരമായി പരിഹരിക്കും എന്ന് മനസിലാക്കുക നമുക്ക് ഇവിടെ വിശകലന പരിഹാരങ്ങൾ അറിയാമെന്ന് എഴുതുക തുടർന്ന് സാഹചര്യവും വൈദ്യുതകാന്തിക സിദ്ധാന്തവും കുറച്ചുകൂടി മെച്ചമായിരുന്നു എന്നും അതിനാൽ നമ്മൾ വൈദ്യുതകാന്തിക സമവാക്യങ്ങൾ നോക്കുന്നു അവ യഥാർത്ഥത്തിൽ രേഖീയമാണ് വൈദ്യുത മണ്ഡലത്തിന് ഒരു ചതുരവും അല്ലെങ്കിൽ 99 ശതമാനം കേസുകളിലും എന്തെങ്കിലും ഇല്ല അതിനാൽ എനിക്ക് രേഖീയ സമവാക്യ സമ്പ്രദായം ഉള്ളപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇത് എങ്ങനെ വിശകലനപരമായി പരിഹരിക്കാമെന്ന് ഇതിനകം തന്നെ ധാരാളം നല്ല സിദ്ധാന്തങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ മിക്ക ആളുകളും ഇത് ചെയ്യുന്നത് മിക്ക കേസുകൾക്കും നമുക്ക് ഈ വിശകലന പരിഹാരങ്ങൾ ഉപയോഗിക്കുകയും തിരിച്ച് ലഭിക്കുന്നതിന് ഏകദേശ കണക്കുകൂട്ടലുകൾ നടത്തുകയും ചെയ്യാം എന്നുള്ളതിനാലാണ് 1960 കളിലാണ് കമ്പ്യൂട്ടേഷണൽ വൈദ്യുതകാന്തിക മേഖല ആരംഭിക്കുന്നത് കാരണം ഇപ്പോൾ ആളുകൾക്ക് അഭിലാഷമായ കമ്പ്യൂട്ടറുകൾ ഉണ്ട് വിശകലന പരിഹാരമില്ലാത്ത കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾ ഇപ്പോൾ കണക്കാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ സംഖ്യാശാസ്ത്രപരമായി ഖനമാക്കേണ്ടതിന്റെ ആവശ്യകത വരുന്നു കൂടാതെ 1960 കളിലും കമ്പ്യൂട്ടറുകൾ കുറച്ച് പ്രായോഗികമാകുന്ന സമയമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അഞ്ച് നിലകളുള്ള ഒരു കെട്ടിടം ഒരു കമ്പ്യൂട്ടർ ഉൾക്കൊള്ളുന്നു എന്നല്ല മറിച്ച് നമുക്ക് ഈ കണക്കുകൂട്ടൽ നടത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നിട്ടും പഞ്ച് കാർഡുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ അവർ ധാരാളം സമയം എടുക്കും 2018 ൽ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ചരിത്രപരമായി തോന്നുന്നു പക്ഷേ 50 വർഷങ്ങൾക്ക് മുമ്പല്ല അവർ ഇത് ചെയ്യുന്നത് വീണ്ടും ഇത് വിശകലനപരമായി പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങൾക്കുള്ളതാണ് വൈദ്യുതകാന്തികശാസ്ത്രത്തിൽ വിശകലനപരമായി പരിഹരിക്കാനാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ലളിതമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു സിലിണ്ടറോ ഗോളമോ ഒരു തലം ഉണ്ടോ ഒരു തരംഗം ഇതുമായി എങ്ങനെ ഇടപെടുന്നു ആളുകൾ വിശകലനപരമായ പരിഹാരങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലാതെ അവ വളരെ സങ്കീർണ്ണമാണെന്ന് തോന്നുന്നു നിങ്ങൾ അവയിൽ ധാരാളം ബെസ്സൽ ഫംഗ്ഷനുകളും കാണുന്നുണ്ട് ഇതു നോക്കുമ്പോൾ ഈ കോഴ്സ് എഴുതുന്നത് നമ്മൾ കാണും അതിനാൽ ഈ ഫീൽഡ് വരുന്നത് 60 കൾക്ക് ശേഷമാണ് അതായത് ഇത് വളരെ പഴയ ഫീൽഡ് അല്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ആദ്യകാല പേപ്പറുകൾ നോക്കിയാൽ ആ മാനസികാവസ്ഥ ഇപ്പോഴും അവിടെയുണ്ടായിരുന്നു എന്നതിന് നമുക്ക് വിശകലന പരിഹാരം ലഭിക്കും അതിനാൽ പേപ്പറുകളിൽ നീണ്ട സമവാക്യങ്ങളുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തും കഴിഞ്ഞ 20 30 വർഷങ്ങളിൽ പേപ്പറുകളിൽ അത് കണ്ടെത്താനാകില്ല ഇത് ഓർമ്മിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് വൈദ്യുതകാന്തികത്തിന്റെ സമവാക്യങ്ങളിലേക്ക് വരാം അതിനാൽ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾക്കായി നമുക്ക് ഒരു പ്രത്യേക അവലോകന പ്രഭാഷണം ഉണ്ടാകും പക്ഷേ ഇത് വീണ്ടും ചരിത്രത്തിന്റെ ഭാഗമാണ് അതിനാൽ വൈദ്യുതകാന്തികശാസ്ത്രത്തിലെ ഏതൊരു വിദ്യാർത്ഥിയും അറിയേണ്ടതുപോലെ നിങ്ങൾകുമറിയാം ഞാൻ ഇവിടെ എന്താണ് എഴുതിയത് വൈദ്യുതകാന്തികശാസ്ത്രത്തിന്റെ നാല് ആധുനിക സമവാക്യങ്ങൾ ഇവയാണ് പക്ഷേ കഥ എല്ലായ്പ്പോഴും ഇങ്ങനെയായിരുന്നില്ല അതിനാൽ നമ്മൾ ആരംഭിച്ചപ്പോൾ ഏറ്റവും പഴയ നിയമം യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ഹൈസ്കൂളിൽ പഠിച്ച കൂലംബ് നിയമമാണ് അത്തരം കാര്യങ്ങൾക്ക് ചുറ്റുമുള്ള ഫീൽഡ് എന്താണെന്ന് ഒരു ചാർജ് ഉണ്ട് ഇത് 1785 ലെ കൊളംബിന്റെ നിയമത്തിൽ നിന്നാണ് വരുന്നത് ആ സമയത്ത് വൈദ്യുതിയും കാന്തികതയും ഇവ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാനെന്നെത് ശരിയെന്ന് കരുതി സ്ഥാനഭ്രംശം നിലവിലെ പദം കൂടാതെ ആമ്പിയറിന്റെ പ്രവർത്തനവുമായി വരുന്നു അതിനാൽ ആമ്പിയറിന് ഇതും ഒരു കാലാവധിയും ഉണ്ടായിരുന്നു അത് ആമ്പിയർ സർക്യൂട്ടൽ നിയമമാണ് അതിനാൽ 1823 ൽ അറിയപ്പെട്ടത് അതാണ് നിങ്ങൾ മുന്നോട്ട് പോകുക ഗൌസ് കാന്തികത പഠിക്കാൻ തുടങ്ങി അതിനാൽ നമുക്ക് ഈ സമവാക്യം ഉണ്ടായി പിന്നെ ഫാരഡേ ഒടുവിൽ ഈ സമവാക്യം വൈദ്യുത മണ്ഡലത്തെ കാന്തികക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി പക്ഷേ അപ്പോഴും ഈ സമവാക്യങ്ങൾ വെറും 4 സമവാക്യങ്ങൾ ആയിരുന്നു പക്ഷേ അവ വ്യത്യസ്ത ഫോർമാറ്റിൽ എഴുതിയത് ധാരാളം ഉണ്ടായിരുന്നു 1864 ൽ വന്ന മാക്സ്വെൽ ആണ് ഈ സമവാക്യങ്ങൾ പറഞ്ഞത് അവയിൽ ഒരു പൊരുത്തക്കേട് ഉണ്ട് ആ പൊരുത്തക്കേട് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ വളരെ ലളിതമാണ് ഗൃഹപാഠത്തിലെ ഒരു പ്രശ്നമെന്ന നിലയിൽ ഈ പൊരുത്തക്കേട് അദ്ദേഹം ഈ പദം കൂട്ടിച്ചേർത്തപ്പോൾ പരിഹരിച്ചു ഈ 4 സമവാക്യങ്ങളും എല്ലാം സ്ഥിരത കൈവരിക്കുന്നു വൈദ്യുതിയുടെയും കാന്തികതയുടെയും ഏകീകരണം സംഭവിക്കുന്നു ഈ 4 സമവാക്യങ്ങളിൽ ഒന്നിനും അദ്ദേഹത്തിന്റെ പേരില്ലെങ്കിലും ഇന്നത്തെ സ്ഥാനചലനത്തിലെ ഈ സമവാക്യങ്ങളെല്ലാം മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത് നിലവിലെ പദം അദ്ദേഹത്തിന്റെ ഏക സംഭാവന കൊണ്ടാണ് വീണ്ടും മാക്സ്വെല്ലിന്റെ സമയത്ത് ഇവ 20 വ്യത്യസ്ത സമവാക്യങ്ങളായിരുന്നു മാക്സ്വെൽ എഴുതിയത് ഇങ്ങനെയല്ല മാക്സ്വെൽ നിങ്ങൾക്കറിയാവുന്ന ചില വിപുലമായ രൂപത്തിൽ അവ എഴുതി ഈ 20 സമവാക്യങ്ങൾ ഒടുവിൽ 4 സമവാക്യങ്ങളായി ഘനീഭവിച്ച ഹെവിസൈഡ് എന്ന ഈ ശാസ്ത്രജ്ഞനാണ് ഇത് നമ്മൾ 1888 മുതൽ നമ്മൾ പഠിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സമവാക്യങ്ങൾ ഇത്രയധികം വിജയിച്ചത് ആരെങ്കിലും ഊഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ 1900 ന്റെ തുടക്കത്തിൽ ഒരു പ്രധാന പരീക്ഷണത്തെ അതിജീവിച്ചതായി ഇത് പ്രകാശം വിശദീകരിക്കുന്നു എന്താണത് വിദ്യാർത്ഥി ആപേക്ഷികത ആപേക്ഷികതാശരിയാണ് അതിനാൽ ഈ സമവാക്യങ്ങൾ ആപേക്ഷികതാ സിദ്ധാന്തവുമായി പൊരുത്തപ്പെടുന്നതായി മാറി അതുകൊണ്ടാണ് ഈ സമവാക്യങ്ങൾ ആ പരീക്ഷണത്തെയും അതിജീവിച്ചത് അവ വളരെ വിജയകരമായിരുന്നു ക്വാണ്ടം മെക്കാനിക്സിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഇതിന്റെ പതിപ്പുകൾ ഉണ്ട് അതിനാൽ ക്വാണ്ടം ഒപ്റ്റിക്സ് വളരെ രസകരമായ ഒരു മേഖലയാണ് ആ സമവാക്യങ്ങൾ അല്പം വ്യത്യസ്തമായി കാണപ്പെടുന്നു പക്ഷേ ആശയം ഒന്നുതന്നെയാണ് അതിനാൽ നിങ്ങൾക്ക് ഈ 4 സമവാക്യങ്ങൾ നോക്കാനാകുമെന്നതിനാൽ അവ രേഖീയമാണ് E ചതുരം ഇല്ല അവിടെത്തന്നെ E ലേക്ക് E ഇല്ല അതിനാൽ ഈ സമവാക്യങ്ങൾ രേഖീയമാണ് അതുകൊണ്ടാണ് ആളുകൾക്ക് അവ വലിയൊരു ഭാഗം വിശകലനപരമായി പരിഹരിക്കാൻ കഴിഞ്ഞത് ഈ പദം ഇവിടെ ചേർക്കുന്നത് ഡിടിയിലആണ് ആളുകൾ ഒപ്റ്റിക്സ് വൈദ്യുതകാന്തികശാസ്ത്രം എന്ന് തിരിച്ചറിയാൻ ഇടയാക്കിയത് ഇവ രണ്ട് വ്യത്യസ്ത സിദ്ധാന്തങ്ങളല്ല മറിച്ച് ഒരേ സിദ്ധാന്തമാണ് അതിനാൽ ഈ ആദ്യ രണ്ട് സമവാക്യങ്ങൾ ഞാൻ എടുക്കുകയും ഞാൻ അവയെ ഒരുമിച്ച് പരിഹരിക്കുകയും ചെയ്താൽ ഒരു തലം തരംഗത്തിന്റെയോ സമവാക്യത്തിന്റെ ഫലങ്ങൾ ഞാൻ പരിഹരിക്കും സൂര്യനിൽ നിന്ന് പ്രകാശത്തിന്റെ വേഗതയിൽ പ്രകാശം നമ്മിലേക്കും അതുപോലുള്ള കാര്യങ്ങളിലേക്കും സഞ്ചരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിച്ചു കൂടാതെ ഈ സമവാക്യങ്ങൾ ആവിഷ്ക്കരിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കോ അല്ലെങ്കിൽ പൾസാറിൽ നിന്ന് ഭൂമിയിലേക്കോ ഉള്ള യാത്രയുടെ ഒരു തരംഗത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ഫാരഡെയുടെ സമവാക്യം അല്ലെങ്കിൽ ആമ്പിയേഴ്സ് സമവാക്യം പോലുള്ള ഈ സമവാക്യങ്ങൾ അത് സർക്യൂട്ട് നിയമങ്ങളിൽ നിർമ്മിച്ച ഒരു സമവാക്യമാണ് സർക്യൂട്ടൽ നിയമം ഒരു കറന്റ് ആയിരുന്നു ഇതിലൂടെ എത്ര കറന്റ് ത്രെഡ് ചെയ്യുന്നുവെന്ന് ഞാൻ കണക്കുകൂട്ടുന്നു അതിനാൽ റെസിസ്റ്ററുകളും കപ്പാസിറ്ററുകളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് എങ്ങനെയാണ് പ്രകാശം സഞ്ചരിക്കുന്നതെന്ന് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു നിയമത്തിന് അത് വളരെ രസകരമാണ് മാക്സ്വെല്ലിന് ശരിയായി ചെയ്യാൻ സാധിച്ച ഈ സ്ഥാനചലന പദത്തിന്റെ ശക്തി അതായിരുന്നു അതിനാൽ ഒപ്റ്റിക്സ് വൈദ്യുതകാന്തികശാസ്ത്രം എന്നിവ ബന്ധിപ്പിക്കുന്നത് മാക്സ്വെൽ സാധ്യമാക്കി മറ്റൊരു കാര്യം ഈ സമവാക്യങ്ങൾ രേഖീയമായതിനാൽ ഫൊറിയർ റൈറ്റ് ഇതിനകം തന്നെ നിർമ്മിച്ച ഒരു വലിയ സാങ്കേതിക വിദ്യകളുണ്ട് എന്നതാണ് ഫോറിയർ ട്രാൻസ്ഫോമുകളും എടുക്കാം അവ സമവാക്യങ്ങൾ ശരിയായി പരിഹരിക്കുന്നതിനുള്ള ഒരു പുതിയ സാങ്കേതിക വിദ്യ നൽകുന്നു ദിവസാവസാനം അവ സാങ്കേതികതകളാണ് അതിനാൽ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിന് ഫോറിയർ ടെക്നിക്കുകൾ പ്രയോഗിക്കാൻ കഴിയും ഇത് ആളുകൾക്ക് ദീർഘകാലത്തേക്ക് കണക്കുകൂട്ടൽ ആവശ്യപ്പെടാത്തതിന്റെ കാരണം വിശദീകരിക്കുന്നു അതിനാൽ നിരവധി ഉപകരണങ്ങളും സാങ്കേതികതകളും ലഭ്യമായിരുന്നു ഫൊറിയർ ടെക്നിക്കുകളുടെഒരു വലിയ ഗുണം എന്താണെന്ന് നമ്മൾ പഠിക്കും കുറച്ച് ആവൃത്തികളുടെ പ്രതികരണം എനിക്കറിയാമെങ്കിൽ എനിക്ക് ഒരു വിപരീത ഫോറിയർ പരിവർത്തനം നടത്താനും കൃത്യസമയത്ത് പ്രതികരണം കണ്ടെത്താനും കഴിയും അതിനാൽ ആവൃത്തിക്കും സമയത്തിനും ഇടയിലുള്ള ഇത്തരത്തിലുള്ള കളികൾ സാധ്യമാകും നിങ്ങൾ കാണുന്നതുപോലെ ഈ സമവാക്യങ്ങൾക്ക് നേരിട്ട് ആവൃത്തി ഇല്ല അതിനാൽ ആവൃത്തി ഡൊമെയ്നിലേക്ക് പോകാൻ ഫൊറിയർ വിദ്യകൾ ഉപയോഗപ്രദമാകും പ്രസക്തമാകുമ്പോൾ നമ്മൾ അവ നോക്കും